ബോറിന്റെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ മാതൃക ഈ പ്രഭാഷണത്തിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രം വിശദീകരിക്കാൻ ക്വാണ്ടം തിയറത്തിന്റെ പ്രയോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ബോർ മോഡൽ എന്നറിയപ്പെടുന്നു സ്പെക്ട്രം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ആദ്യം വിശദീകരിക്കട്ടെ അതിനായി വിക്കിപീഡിയയിൽ നിന്നുള്ള ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അതിനാൽ വിക്കിപീഡിയയിൽ നിന്നുള്ള ചിത്രം ഇത് ഇവിടെ അംഗീകരിക്കുക അതിനാൽ നിങ്ങൾ ഒരു ഹൈഡ്രജൻ സ്പെക്ട്രം നോക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് അതിനാൽ ഞാൻ ഇത് കാണിക്കുന്ന മുകളിലെ ഭാഗം ചുവപ്പ് കൊണ്ട് വിശദീകരിക്കാം പച്ച ആര്രൌ എമിഷൻ സ്പെക്ട്രമാണ് അതിനാൽ നിങ്ങൾ ലൈൻ കാണുന്നു ഇവിടെ ചുവപ്പ് നിറത്തിലുള്ള ഒരു വര ഒരു പച്ച വരയും മറ്റ് ചില വരകളും താഴത്തെ ഭാഗം റേഡിയേഷൻ സ്പെക്ട്രമാണ് അവിടെ ചില വെവെലെങ്ത് നഷ്ടപ്പെട്ടതായി നിങ്ങൾ കാണുന്നു ഇവിടെയാണ് പ്രകാശം കടന്നുപോകുമ്പോൾ ഗ്യാസ് ഈ പ്രത്യേക നിറങ്ങൾ റേഡിയേഷൻ ചെയ്യുന്നത് അത് റേഡിയേഷൻ ചെയ്യുന്നതെന്തും ഒരേ തരത്തിലുള്ള വരി ഒരേ തരത്തിലുള്ള ഫ്രീക്വൻസി അത് റേഡിയേഷൻ ചെയ്യുന്നതെന്തും അത് പുറപ്പെടുവിക്കുമ്പോൾ അത് പുറപ്പെടുവിക്കുന്ന അതേ വെവെലെങ്ത് ഇവിടെ കാണിക്കുന്നത് ഇന്റന്സിറ്റിയാണ് ഇവിടെ ഉയരം ഇന്റന്സിറ്റി നൽകുന്നു ഈ സ്ഥാനം ഇവിടെ വെവെലെങ്ത് നൽകുന്നു അതിനാൽ നമ്മൾ ഇവിടെ കാണുന്നത് ഹൈഡ്രജൻ ഗ്യാസിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം ആവേശഭരിതമാകുമ്പോൾ ഞാൻ എടുത്ത് പ്രത്യേക വാവേലെങ്ത്തുകളുടെ ഇന്റന്സിറ്റി അളക്കുന്നു ചില വെവെലെങ്ത് പുറത്തുവരുന്നത് ഞാൻ കാണാൻ പോകുന്നു ഉദാഹരണത്തിന് ഈ എമിഷൻ സ്പെക്ട്രത്തിൽ ചുവപ്പ് നിറത്തോട് യോജിക്കുന്ന ഒരു വെവെലെങ്ത് ഞാൻ കാണുന്നു അത് റേഡിയേഷൻ സ്പെക്ട്രത്തിൽ കണികാ വെവെലെങ്ത് വരുന്ന അതേ സ്ഥാനങ്ങളിൽ ഞാൻ പ്രകാശത്തെ കടത്തിവിട്ടാൽ ഈ സ്പെക്ട്രം എങ്ങനെ എടുക്കുന്നു എന്നതിന് ഒരു റേഡിയേഷൻ ഉണ്ട് അതിനാൽ ഈ സ്പെക്ട്രം എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ഞാൻ ഇപ്പോൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനായി പ്രതീകാത്മകമായി ഒരു പ്രകാശം വരുന്ന ഈ ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നു ഇത് ഒരു ഡിസ്ചാർജ് ട്യൂബ് ആണ് അവിടെ വൈദ്യുതി ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു അങ്ങനെ ആറ്റങ്ങൾ ആവേശഭരിതമാവുകയും പ്രകാശം പുറത്തുവരുകയും ചെയ്യുന്നു പ്രകാശം ഒരു സ്ലിറ്റിലൂടെ എടുക്കുന്നു അതിനാൽ ഈ വെളിച്ചം ഇവിടെ എല്ലാ ദിശകളിലേക്കും പുറപ്പെടുന്നു ഇവിടെ എല്ലാ ദിശകളിലും നീല ആക്കട്ടെ ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട് അതിൽ നിന്ന് അത് പുറത്തുവരുന്നു തുടർന്ന് പ്രകാശം ഒരു പ്രിസത്തിലൂടെ കടന്നുപോകുന്നു ഇതാ ഒരു പ്രിസം പ്രിസം എന്താണ് ചെയ്യുന്നത് പ്രിസം എല്ലാ വരികളെയും എല്ലാ വാവേലെങ്തുകളെയും വേർതിരിക്കുന്നു അതിനാൽ ചുവപ്പ് ഇവിടെ വന്നാൽ പച്ച ഇവിടെ പോകുന്നു അതിനാൽ അതിന്റെ വാവേലെങ്ത്ത്തിൽ നിന്ന് പുറത്തുവരുന്ന എല്ലാ പ്രകാശവും ഈ പ്രിസത്താൽ വേർതിരിക്കപ്പെടുന്നു അത് ഒരു സ്പെക്ട്രം എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ എടുക്കുന്നു അതിനാൽ ഞാൻ നിങ്ങൾക്ക് മുമ്പ് കാണിച്ചുതന്നത് ഹൈഡ്രജനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം ഈ പ്രിസത്തിലൂടെ കടന്നുപോകുമ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രം ഈ വ്യത്യസ്ത നിറങ്ങളും വ്യത്യസ്ത വെവെലെങ്തുകളും കണ്ടു അങ്ങനെയാണ് ഈ വെവെലെങ്ത് ഈ സ്പെക്ട്രത്തിൽ വരുന്നതെന്ന് നിങ്ങൾക്കറിയാം ഒരേ വെവെലെങ്ത്തിൽ നിങ്ങൾ പ്രകാശം വാതകത്തിലൂടെ കടന്നുപോകാൻ അനുവദിക്കുമ്പോൾ പ്രകാശം റേഡിയേഷൻ ചെയ്യപ്പെടുന്നു അതിനാൽ മുമ്പത്തെ സ്ലൈഡിൽ നിങ്ങൾ കണ്ടത് പോലെ പ്രകാശം വാതകത്തിലൂടെ കടന്നുപോയി ശേഷം വീണ്ടു അത് പ്രിസത്തിലൂടെ കടന്നുപോകുബോൾ ചില വെവെലെങ്ത് സ്പെക്ട്രത്തിൽ നിന്ന് കാണുന്നില്ല അതിനാൽ നഷ്ടമായ ഇവ ഇവിടെ കാണിക്കുന്നു ഞാൻ അവ വീണ്ടും കാണിക്കുന്നു ഇവ ഇവിടെ കാണിച്ചു അവ കാണുന്നില്ല ഇവയാണ് റേഡിയേഷൻ ലൈനുകൾ അതിനാൽഅത് ഒരേ വെവെലെങ്ത്തിൽ പ്രകാശം നൽകുന്നു അത് പ്രകാശത്തെ റേഡിയേഷൻ ചെയ്യുന്നു ശരിയാണ് ഇത് വിശദീകരിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ചില വെവെലെങ്ത് മാത്രം റേഡിയേഷൻ ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ചില വെവെലെങ്ത് മാത്രം പുറത്തുവിടുന്നത് ഇതിനായി ക്വാണ്ടം സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയാണ് ബോർ മോഡൽ നൽകിയത് അതിനാൽ ക്വാണ്ടം സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ബോർ മാതൃക അദ്ദേഹം പറഞ്ഞത് ഒരു ആറ്റത്തിൽ ഒരു ഹൈഡ്രജൻ ആറ്റമുണ്ട് ഇത് ഒരു പ്രോട്ടോണാണ് അതിന് ചുറ്റും ഒരു ഇലക്ട്രോൺ ഓർബിറ്റിൽ സഞ്ചരിക്കുന്നു അവ ക്ലാസിക്കൽ നിയമം പാലിക്കുന്നു അതായത് ഞാൻ സെന്ററിപിറ്റൽ ഫോഴ്സ് mv2r എടുക്കുകയാണെങ്കിൽ അത് e²4πε₀r ന് തുല്യമായിരിക്കണം അവിടെ m എന്നത് ഇലക്ട്രോൺ e യുടെ മസ്സാണ് മോഡ് e എന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ് r എന്നത് ഈ പരിക്രമണപഥത്തിന്റെ റെഡിസ് ആണ് 4πϵ₀ എന്നത് ഇലക്ട്രോണിന്റെ വേഗത 9 × 109 v എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇത് നിങ്ങൾക്ക് m v²re²4πε₀ നൽകുന്നു അതായത് ഇക്യുയേഷൻ 1 ബോറിന്റെBohrs മാതൃകയിൽ നാടകീയമായത് എന്തെന്നാൽ ഇത് ക്ലാസിക്കൽ ഫിസിക്സാണ് ആന്ഗുലർ മൊമെന്റും കൂട്ടുന്നത് നാടകീയമല്ല അതിനാൽ ബോറിന്റെ മാതൃകയിൽ നാടകീയമായത് ആന്ഗുലർ മോമെന്റും അളവാണ് അതിനാൽ ബോർ പറഞ്ഞത് ഇവിടെ ഈ പ്രോട്ടോൺ ആണ് ഇതാ ഈ ഇലക്ട്രോൺ ചുറ്റി സഞ്ചരിക്കുന്നു ഈ റെഡിസ് r അതിനാൽ ആദ്യ നിയമം വളരെ വ്യക്തമായിരുന്നു mv²re²4πε₀ ആന്ഗുലർ മോമെന്റും അനിയന്ത്രിതമായ ആന്ഗുലർ മോമെന്റും ആവരുത് അല്ലെങ്കിൽ ഈ ഓർബിറ്റിൽ ചുറ്റി സഞ്ചരിക്കുന്ന ഇലക്ട്രോണിന്റെ ആന്ഗുലർ മോമെന്റും തുല്യമായ m v r ന് ℏ ന്റെ പൂർണ്ണ ഗുണിതങ്ങളായ മൂല്യങ്ങൾ മാത്രമേ എടുക്കാൻ കഴിയൂ ℏ h പ്ലാങ്കിന്റെ സ്ഥിരാങ്കത്തെPlancks constant 2 π കൊണ്ട് ഹരിച്ചാൽ ℏ എന്ന് എഴുതാം കൂടാതെ n ഒരു ഇന്റിജർ ആണ് അതിനാൽ അദ്ദേഹം ഈ ക്വാണ്ടം ആശയം ആറ്റോമിക് ഡൊമെയ്നിലേക്ക് കൊണ്ടുവന്നു ഒരു ഓസിലേറ്ററിന് ഊർജ്ജത്തിന്റെ അനിയന്ത്രിതമായ മൂല്യങ്ങൾ എടുക്കാൻ കഴിയാത്തതുപോലെ അത് ഹൈഡ്രജൻ ആറ്റത്തിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ h ν ആന്ഗുലർ മോമെന്റും ആന്ഗുലർ മോമെന്റും ℏ ന്റെ മൾട്ടിപ്ലികളിൽ ആയിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിൽ ഒരു പ്രോട്ടോണിനെ അനന്തമായ ഭാരമുള്ള സംഖ്യ 1 ആയി കണക്കാക്കുന്നു നമ്പർ 2 ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റങ്ങളുടെ അയോണുകളിലേക്ക് മാതൃകയെ സാമാന്യവൽക്കരിക്കാൻ കഴിയും അതിനർത്ഥം He Li Be എന്നിങ്ങനെയുള്ള ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ അത് പിന്നീട് സംസാരിക്കും എന്നാൽ തൽക്കാലം ഇതാണ് അതിനാൽ ബോർ മോഡൽ അനുസരിച്ച് എനിക്ക് mv²re²4πε₀ ഉണ്ട് mvr എന്നത് nh ന് തുല്യമാണ് ഇത് ഇക്യുയേഷൻ 1 ആണ് ഇക്യുയേഷൻ 2ഞാൻ 1 നെ 2 കൊണ്ട് ഹരിച്ചാൽ എനിക്ക് ve²4πε₀nh ലഭിക്കും അതിനാൽ ഓരോ ആർബിട്രറിയിലും ആരത്തിലും വേഗത ∝ 1n അതിനാൽ മുകളിലെ ഇക്യുയേഷൻ 2 ൽ നിന്ന് nhmr ആകാൻ പോകുന്ന ഈ vn റെഡിസ് rn എന്ന് ഞാൻ വിളിക്കട്ടെ അത് n²h²4πε₀e²∝n² ആകും അതിനാൽ സിസ്റ്റത്തിന്റെ എനർജി n നെ ആശ്രയിച്ചിരിക്കുന്നു Eₙ nth പരിക്രമണപഥത്തിലെ e²4πε₀rₙ ന് തുല്യമായിരിക്കും അത് ഗതികോർജ്ജമായ 12mv² ആണ് അത് പുറത്തുവരും നമുക്ക് സംഖ്യകൾ e²4πε₀1rₙ പകരം e²4πε₀ₙ²ₕ²½mv²ₙ വയ്ക്കാം ഇതിന് തുല്യമാണ് ഇവിടെ ഒരു m ഉണ്ടായിരിക്കണം ഇത് m v ആയിരിക്കണം അതിനാൽ ഇവിടെ Eₙ എന്നതിനൊപ്പം m² ഉണ്ടായിരിക്കണം അവിടെ ½v²ₙ ഉണ്ടായിരിക്കണം ഒന്നുമില്ലe⁴4πε₀²n²h² അതാണ് ഊർജം ഇത് നിങ്ങൾ ഒരുമിച്ച് ശേഖരിക്കുകയാണെങ്കിൽ En −12me44 π ϵ ² n² ആയിരിക്കും ℏ² അതിനാൽ ഇത് 1n2 ന് ആനുപാതികമാണ് നമുക്ക് ഇതിന്റെ മൂല്യം പെട്ടെന്ന് കണക്കാക്കാം അതിനാൽ ഇത് ½ × 9

6 × 10−76 × 81× 101810⁻⁶⁸ അത് ഏകദേശം 13 6 ഇലക്ട്രോൺ വോൾട്ട് ആണ് അതിനാൽ En എന്നത് 13 6n²eV ഇലക്ട്രോൺ വോൾട്ട് ആണ് ഇവിടെ 1 ഇലക്ട്രോൺ വോൾട്ട് 1 6 × 10⁻¹⁹ ജൂൾ ആണെന്നും ഇത് ജൂളുകളിലാണെന്നും വ്യക്തമാക്കാം അതിനാൽ ഇത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ ഒരു ഇലക്ട്രോണിന്റെ ഊർജ്ജമാണ് തുടർന്ന് ബോർ പറഞ്ഞ മൂന്നാമത്തെ കാര്യം ഈ ഇലക്ട്രോണുകൾക്ക് വ്യത്യസ്തമായ ഊർജ്ജങ്ങളുണ്ട് അതിനാൽ −13 6eV 13 64eV 13 69 eV ഈ ദൂരങ്ങൾ ഏകദേശം തുല്യമാണെന്ന് ഞാൻ കാണിച്ചു എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ ഉയർന്നതും ഉയർന്നതുമായ തലങ്ങളിലേക്ക് പോകുമ്പോൾ അവ ചെറുതായിത്തീരുന്നു അതിനാൽ ഞാൻ യഥാർത്ഥത്തിൽ I 13 6 13 6 4 13 6 9 ൽ പ്ലോട്ട് ചെയ്യണം 13 6 16 അങ്ങനെ അവ കൂടുതൽ അടുത്ത് വരുന്നു അതിനാൽ മൈനസ് −13 6 eV 13 64 eV എന്നിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രോണുകൾ പ്രകാശം പുറപ്പെടുവിക്കുമ്പോൾ അവ ഒരു ഭ്രമണപഥത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്നു അവർ ഒരു ഫോട്ടോൺ പുറപ്പെടുവിക്കുന്നു അപ്പോൾ ബോർ പറഞ്ഞത് എപ്പോൾ എന്നാണ് അതിനാൽ ഒരു ഇലക്ട്രോൺ എക്സൈറ്റഡ് എനർജി ലെവലിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ അത് 1 ഫോട്ടോൺ ഫ്രീക്വൻസി ν പുറപ്പെടുവിക്കുന്ന ലെവലുകൾ ഇവയാണ് അതിനാൽ m മുതൽ n വരെ ചാടുമ്പോൾ ഈ h ν എനർജി Em−En ന് തുല്യമായിരിക്കും അതിനാൽ ഈ ലെവൽ m ആണെന്നും ഈ ലെവൽ n ആണെന്നും ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ചാടുന്നു എന്ന് കരുതുക അത് ഒരു ഫ്രീക്വൻസി ν നൽകുന്നു അത് h ആണ് അത് റേഡിയേഷൻ ചെയ്യുമ്പോൾ വിപരീത പ്രക്രിയയും എനർജി കൃത്യമായി ഒരേ ഫ്രീക്വൻസി നിരീക്ഷിക്കാൻ പോകുന്നു Em− Enh അതിനാൽ ആ ഫ്രീക്വൻസികൾ തുല്യമായിരിക്കും അവയ്ക്ക് വളരെ നിർദ്ദിഷ്ട മൂല്യങ്ങൾ ഉണ്ടായിരിക്കും ഇത് ചിലപ്പോൾ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കുന്നു ഇത് c λ ആണ് ഇത് h ആകാൻ പോകുന്നു അതിനാൽ 1 λ എന്നത് 1hc E ₘ Eₙ ആയിരിക്കും ചിലപ്പോൾ ഇത് രൈഡ്ബർഗ കോൺസ്റ്റന്റ് 1m² 1n² ആയി എഴുതുന്നു ഇത് ഒരു പോസിറ്റീവ് അടയാളം ഉണ്ടായിരിക്കുക ഇത് ഇതുപോലെ നെഗറ്റീവ് ആയിരിക്കും ശരി അതിനാൽ 1 λ m ലേക്ക് n ലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ R−1m²1n² ആയി മാറുന്നു അത് സ്പെക്ട്രം വ്യതിരിക്തമായത് എന്തുകൊണ്ടാണെന്നും അത് ബോർ മോഡലിന്റെ വിജയമാണെന്നും വിശദീകരിച്ചു അതിനാൽ നിരീക്ഷിച്ച വെവെലെങ്തുകളിൽ ഫ്രീക്വൻസികൾ അല്ലെങ്കിൽ λ തുല്യമായി പൊരുത്തപ്പെടുന്നുവെന്ന് നമുക്ക് പറയാം അതിനാൽ നമ്മൾ ക്വാണ്ടം തിയറി വികസിപ്പിച്ചെടുത്തു സോളിഡുകളുടെ പ്രത്യേക ചൂട് വിശദീകരിക്കാൻ അത് പ്രയോഗിച്ചു ഇപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രം തിയറി ശരിയായിരിക്കണമെന്ന് വിശദീകരിക്കാൻ അത് പ്രയോഗിച്ചു ഇപ്പോൾ എനിക്ക് 2 പോയിന്റുകൾ ഉണ്ടാക്കണം നമ്പർ 1 നമ്മൾ ഈ കേസിൽ ന്യൂക്ലിയസ് എടുത്തത് ചാർജ് e അതിനാൽ ന്യൂക്ലിയസിന് Z e ചാർജുണ്ടെങ്കിൽ എന്റെ എനർജി e4 ന് ആനുപാതികമായിരുന്നു അതായത് He ന് Z 2 Li ന് Z 3 അങ്ങനെയെങ്കിൽ E എന്നത് Z²e⁴ ന് ആനുപാതികമായിരിക്കും അതിനാൽ En പിന്നീട് −13 6 Z² n² eV ആയി വരുന്നു അത് പോയിന്റ് നമ്പർ വൺ ആണ് പോയിന്റ് നമ്പർ രണ്ട് ന്യൂക്ലിയസിന്റെ ജനറൽ മാസ്സിൽ ന്യൂക്ലിയസിന് ഇൻഫിനിറ്റി മാസ്സ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അനുമാനിച്ചു എന്നാൽ അങ്ങനെയെങ്കിൽ Mn ഇലക്ട്രോൺ മാസ്സ് കുറഞ്ഞ മാസ്സ് കൊണ്ട് മാറ്റിസ്ഥാപിക്കുന്നു ഇത് me M n നെ meM n ഉം കൊണ്ട് ഹരിച്ചാൽ അതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കരുതുക ഞാൻ ഐസോടോപ്പ് എടുക്കുന്നു 2 ന്യൂട്രോണുകളും 1 പ്രോട്ടോണുകളും ഉള്ള 1 ന്യൂട്രോണും 1 പ്രോട്ടോൺ ട്രിറ്റിയവും ഉള്ള ഹൈഡ്രജൻ ഡ്യൂറ്റീരിയം ആയ ഹൈഡ്രജന്റെ ഐസോടോപ്പ് എന്ന് പറയാം അതിനാൽ ന്യൂക്ലിയർ ചാർജ് ഇപ്പോഴും 1 ആണ് പക്ഷേ അവ കൂടുതൽ ന്യൂട്രോണുകളാണ് അതിനാൽ പിണ്ഡമുള്ള മാറ്റങ്ങൾക്ക് മെം പ്രോട്ടോണിന്റെ മാസ്സ് കുറയും ഇത് m e m പ്രോട്ടോണും m e m പ്രോട്ടോണും കൊണ്ട് ഹരിച്ചാൽ കുറയും ഇതിന് me തവണകളുടെ മാസ്സ് m പ്രോട്ടോണും m ന്യൂട്രോണും വിഭജിക്കപ്പെടും എm പ്രോട്ടോൺ പ്ലസ് m ന്യൂട്രോൺ me ഇതിന് മറ്റെന്തെങ്കിലും മാസ്സ് കുറയും അത് സ്പെക്ട്രത്തെ ബാധിക്കും കാരണം ഊർജം mu ന് ആനുപാതികമാണ് ഇത് mu അല്ലെങ്കിൽ കുറഞ്ഞ മാസ്സ്നെ സൂചിപ്പിക്കുന്നു അതിനാൽ ഹൈഡ്രജൻ ഡ്യൂറ്റീരിയത്തിന്റെ ഊർജ്ജത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും അതിനാൽ സ്പെക്ട്രം അൽപ്പം മാറും അതിനാൽ ഹൈഡ്രജന്റെയും ഡ്യൂറ്റീരിയത്തിന്റെയും വെവെലെങ്ത് അല്പം വ്യത്യസ്തമായിരിക്കും വാസ്തവത്തിൽ അങ്ങനെയാണ് ഡ്യൂറ്റീരിയം കണ്ടെത്തിയത് ഡ്യൂറ്റീരിയത്തിന്റെ അളവ് വളരെ ചെറുതാണെങ്കിൽ വരയുടെ ശക്തിയോ ഇന്റന്സിറ്റിയോ വളരെ കുറവായിരിക്കും പക്ഷേ അത് അവിടെയായിരിക്കും അതിനാൽ 2 കാര്യങ്ങൾ ഓർക്കുക നമുക്ക് ഹൈഡ്രജൻ പോലുള്ള അയോണുകൾ ഉണ്ടെങ്കിൽ Z ഉയർന്ന എനർജി Z2 ആയി ഉയരും എനെർജിയും ന്യൂക്ലിയസ് പിണ്ഡത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാൻ ബോർ മോഡൽ ഹൈഡ്രജന്റെ ലാംഡയെ വിശദീകരിക്കുന്നു എന്നിരുന്നാലും ആന്ഗുലർ മോമെന്റും ഇല്ലാത്ത സിസ്റ്റങ്ങളിൽ ഇത് പ്രയോഗിക്കാൻ കഴിയില്ലെന്ന് ഞാൻ സൂചിപ്പിക്കണം ഉദാഹരണത്തിന് 1 D യിൽ ലളിതമായ ഹാർമോണിക് ചലനം നടത്തുന്ന ഒരു കണിക ഉണ്ടെന്ന് കരുതുക നമ്പർ 3 റേഡിയേഷന്റെ ഇന്റന്സിറ്റി നൽകുന്നില്ല അതിനാൽ ബോർ മോഡൽ ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണെന്ന് നിഗമനം ചെയ്യാൻ അത് ക്വാണ്ടം തിയറി പ്രയോഗിക്കുകയും ചില വെവെലെങ്ത് മാത്രം നിരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു എന്നിരുന്നാലും വിശദീകരിക്കാത്ത കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഉദാഹരണത്തിന് ഒരു ഡൈമൻഷണൽ ചലനത്തെ എങ്ങനെ അളക്കാമെന്ന് ഇത് നിങ്ങളോട് പറഞ്ഞില്ല അല്ലെങ്കിൽ മറ്റ് സിസ്റ്റങ്ങൾ അത് ഇന്റന്സിറ്റി നൽകിയില്ല അതിനാൽ ഇത് ക്വാണ്ടം തിയറിലേക്കുള്ള ബിൽഡ് അപ്പ് ആയിരുന്നു അടുത്ത ആഴ്ച ഞാൻ ബോർ മോഡലിനെ സാമാന്യവൽക്കരിക്കാൻ പോകുന്നു അതുവഴി മറ്റ് സിസ്റ്റങ്ങളിലും ഇത് പ്രയോഗിക്കാൻ കഴിയും ഇത് അടുത്ത ആഴ്ച ചെയ്യാൻ പോകുന്ന വിൽസൺ സോമർഫെൽഡ് ക്വാണ്ടൈസേഷൻ എന്നറിയപ്പെടുന്നു